ഇന്ന് നമ്മൾ ക്ലൌഡ് കമ്പ്യൂട്ടിംഗിന്റെ ഒരു വശം ചർച്ച ചെയ്യും ഒപ്പം അവിടെ ദാതാക്കളുടെ എണ്ണം ഉണ്ടെങ്കിൽ അത് കാണും കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ ഒരു വഴിയുണ്ടോയെന്നും കാര്യങ്ങളുടെ സമീപനം എങ്ങനെയായിരിക്കണമെന്നും ഞാൻ തിരഞ്ഞെടുക്കും ഇന്നത്തെ സാഹചര്യത്തിൽ വിവിധ തലത്തിലുള്ള IaaS ലെവലിൽ PaaS ലെവൽ SaaS ലെവലിൽ ദാതാക്കളുടെ എണ്ണം കൂടുതലായി ലഭിക്കുന്നുണ്ടെന്ന് നാം കാണുന്നു വിവിധ തലങ്ങളിൽ ഉപഭോക്താവിന്റെ ഭാഗത്ത് നിന്ന് നിരവധി അഭ്യർത്ഥനകൾ ഉണ്ട് ഉപഭോക്താവിന് ഒരു പ്രതീക്ഷയോ ആവശ്യകതയോ ഉണ്ട് കൂടാതെ ദാതാക്കൾ ചില എസ്എൽഎകളുമായി ഒരു പ്രത്യേക കാര്യങ്ങൾ നൽകുന്നു ആദ്യം ഉപഭോക്താവ് അറിയാൻ ആഗ്രഹിക്കുന്നത് ഏത് ദാതാവാണ് ലഭ്യമായ ദാതാക്കളിൽ നിന്ന് എങ്ങനെ ഒരു ദാതാവിനെ തിരഞ്ഞെടുക്കാം അവിടെ ഉപഭോക്താക്കളുടെ പ്രതീക്ഷ തൃപ്തിപ്പെടും SLA ബഹുമാനിക്കപ്പെടും കൂടാതെ ദാതാക്കളും അവന്റെ ലാഭം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇതിനകം നമ്മൾ കണ്ട ചില വശങ്ങൾ ആണിവ ഈ സുരക്ഷയും മറ്റ് വശങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഈ ക്ലൌഡ് മാർക്കറ്റ്പ്ലെയ്സ് ഇവിടെ നിരവധി ഉപഭോക്താക്കളുണ്ട് അത് എങ്ങനെ തിരഞ്ഞെടുക്കാമെന്നതിനുള്ള ഒരു മാർക്കറ്റ്പ്ലെയ്സ് ആണ് ലഭ്യമായ ക്ലൌഡ് സേവനങ്ങളിൽ ദ്രുതഗതിയിലുള്ള വളർച്ചയുണ്ടെന്ന് നമ്മൾ കാണുന്നു നിരവധി സേവന ദാതാക്കളുണ്ട് കാര്യങ്ങളുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയുണ്ട് കൂടാതെ ഗുണനിലവാരമുള്ള സേവനങ്ങളുടെ ധാരാളം ദാതാക്കളും ഉണ്ട് വ്യത്യസ്ത ദാതാക്കളുടെ സേവനങ്ങളുടെ ഗുണനിലവാരവും വ്യത്യസ്ത തരം ഉപയോഗ കേസുകളും ഉണ്ട് ഉപഭോക്തൃ അടിസ്ഥാനത്തിലുള്ള കേസുകൾ ഓരോന്നിനും വ്യത്യസ്ത ആവശ്യകതകളോ നിരവധി ആവശ്യകതകളോ ഉണ്ട് ഉപഭോക്താവിന്റെ ആവശ്യകത അവലോകനം ഉപഭോക്താവിന്റെ ആവശ്യകതയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് ഉപഭോക്താവിൽ നിന്ന് ഉപഭോക്താവിലേക്ക് വ്യത്യാസപ്പെടുന്നു ഇത് മറ്റൊരു വശമാണ് ചില റഫറൻസുകളിൽ എണ്ണം ശ്രദ്ധേയമായി മാറിയിരിക്കുന്നു കാര്യങ്ങൾക്കായി വലിയ ഡിമാൻഡുണ്ട് ഈ കാര്യങ്ങളെല്ലാം സൂക്ഷിക്കുന്നതിൽ നമ്മൾക്ക് ഒരു ഇടനിലക്കാരന്റെ ആവശ്യമുണ്ട് ഏജന്റ് അല്ലെങ്കിൽ ബ്രോക്കർ എന്ന് വിളിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഉപഭോക്താവിന് മികച്ച ക്ലൌഡ് ദാതാവിനെ നിർദ്ദേശിക്കുന്നതിനോ അല്ലെങ്കിൽ ഉപഭോക്താവിന്റെ അവകാശം സംരക്ഷിക്കുന്നതിനോ ഉള്ള ഒരു ബുദ്ധിമാനായ ബ്രോക്കറായിരിക്കാം എനിക്ക് ഒരു മിഡിൽമാൻ അല്ലെങ്കിൽ ഇന്റലിജന്റ് ബ്രോക്കർ ചെയ്യാം ബുദ്ധിമാനായ ഒരു ഏജന്റ് അല്ലെങ്കിൽ ബ്രോക്കറുമായി എങ്ങനെ കാര്യങ്ങൾ തിരഞ്ഞെടുക്കാം എന്നിങ്ങനെ ക്ലൌഡ് ദാതാവിന്റെ ഈ വഴക്കമുള്ള തിരഞ്ഞെടുപ്പിന് തീർച്ചയായും പ്രചോദനമുണ്ട് ദാതാവിന്റെ വിശ്വാസ്യത ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഞാൻ എത്രമാത്രം വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഒരു ദാതാവിനെ വിശ്വസിക്കാൻ എനിക്ക് കഴിയും എന്നിങ്ങനെ ഞാൻ എങ്ങനെ വിശ്വാസ്യത കണക്കാക്കും എന്നത് ഒരു വലിയ വെല്ലുവിളിയാണ് അതെ ക്ലൌഡ് സുരക്ഷയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ സുരക്ഷയുടെ സമയത്ത് നമ്മൾ പരിശോധിച്ച അല്ലെങ്കിൽ ചർച്ച ചെയ്ത ചില വശങ്ങൾ ആണിവ വർത്തിനെസ്സ് പ്രധാനമാണ് ഇവിടെ സേവനത്തെ നിരീക്ഷിക്കുന്ന ഒരു ഘടകമാണിത് അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും സേവനങ്ങൾ എങ്ങനെ നിരീക്ഷിക്കപ്പെടുന്നു വെണ്ടർ ലോക്കിന്റെ പ്രധാന വശങ്ങൾ തുടങ്ങിയവ വെണ്ടർ ലോക്കിന്റെ ഒരു പ്രശ്നമുണ്ട് അതിനർത്ഥം നിങ്ങൾ ചില ദാതാക്കളുമായി പ്രവർത്തിക്കുന്നു മാത്രമല്ല സേവനങ്ങൾ കാരണം ദാതാക്കളുമായി നിങ്ങൾ ലോക്ക് ചെയ്യപ്പെടും ദാതാക്കൾ സേവനം നിശ്ചയിക്കപ്പെട്ട അളവിൽ നൽകുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ദാതാവ് സിഎസ്പി സേവനം നൽകുന്നില്ലെങ്കിൽ മറ്റൊരു വെണ്ടറിലേക്ക് പോകുന്നത് ബുദ്ധിമുട്ടാണ് മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ നിബന്ധനകളിലും വ്യവസ്ഥകളിലും പോകേണ്ടതുണ്ട് അല്ലെങ്കിൽ ദാതാവിന്റെ നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും ഉപഭോക്താവ് പോകേണ്ടതുണ്ട് വെണ്ടർ ലോക്ക് ഇൻ ചെയ്യുന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന വശങ്ങളാണ് മറ്റ് നിരവധി പ്രചോദനങ്ങൾ ഉണ്ടാകാം പക്ഷേ ഞാൻ നോക്കുന്നത് എനിക്ക് സാധ്യമായ ഏറ്റവും മികച്ച ക്ലൌഡ് കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് ഒരു മെക്കാനിസമോ ബ്രോക്കറോ ആവശ്യമാണ് നിങ്ങൾ ലക്ഷ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ക്യൂഒഎസ് തീരുമാനമെടുക്കൽ സംവിധാനം എന്നത് മറ്റ് ലക്ഷ്യങ്ങൾ ആണ് എനിക്ക് ഉപഭോക്തൃ കാഴ്ചപ്പാടിൽ നിന്നോ അല്ലെങ്കിൽ ഒരു മിഡിൽ വെയറിന്റെ ചെയ്യാൻ കഴിയുമോ എന്നതുപോലെയാണ് വിഎമ്മിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ നോക്കേണ്ടത് ആപ്ലിക്കേഷൻ കാര്യങ്ങളിൽ മൈഗ്രേറ്റ് ചെയ്യുമോ എന്നും നമ്മൾ നോക്കും വിഎം ലെവൽ തരങ്ങളും നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിവിധ ഓർഗനൈസേഷനുകൾ പിന്തുണയ്ക്കുന്നു പക്ഷേ ഒരു അപ്ലിക്കേഷനിൽ നിന്നും മറ്റൊരു ദാതാവിലേക്കുള്ള മുഴുവൻ ആപ്ലിക്കേഷനിലെയും ഇത്തരത്തിലുള്ള മൈഗ്രേഷൻ ഉണ്ടോയെന്നത് പ്രധാനമാണ് ഒരിക്കൽ നമ്മൾ ഒരു മൈഗ്രേഷൻ അല്ലെങ്കിൽ പല വശങ്ങളും ചെയ്തുകഴിഞ്ഞാൽ നമ്മൾ ഒരു തീരുമാനം ശരിയായി എടുക്കേണ്ടതുണ്ട് ശരിയായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയ ഉണ്ടായിരിക്കണം എനിക്ക് ഒരു തരത്തിലുള്ള തീരുമാനമെടുക്കൽ പിന്തുണ ആവശ്യമാണ് അത് ചെയ്യാൻ എന്നെ അനുവദിക്കുന്നു രണ്ടാമതായി മറ്റൊരു കാര്യം ഉണ്ട് ആവശ്യകതയെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ പ്രകടനത്തെ അടിസ്ഥാനമാക്കി മിക്ക കാര്യങ്ങളും വളരെ വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടില്ല കാര്യം ഇതാണ് ഈ പരാമീറ്ററുകളെല്ലാം വളരെ വ്യക്തമായി നമ്മളിലേക്ക് എത്തുന്നില്ല എന്നത് ധാരാളം ഫസിനെസ്സ് സൃഷ്ടിക്കുന്നു ഉപഭോക്താവിന്റെ വിശദാംശങ്ങൾ നൽകുന്നതിൽ പ്രത്യേകിച്ചും പിഴ ഉണ്ട് ഞാൻ ചെയ്യേണ്ടത് ആ വശങ്ങളെ മൊത്തത്തിൽ കണക്കാക്കുകയാണ് അവയിൽ കുറച്ച് ശ്രമിച്ചതിന് വ്യത്യസ്തമായ സമീപനങ്ങളുണ്ട് പക്ഷേ ആളുകൾ സമാനമായ രീതിയിൽ ശ്രമിച്ച ക്ലൌഡ് സിഎംപി തിരഞ്ഞെടുക്കൽ സംവിധാനം ഉണ്ട് ഫസ്സി ദാതാവിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സംവിധാനം ഉണ്ട് ഫസ്സി ആണ് ഒരു തിരഞ്ഞെടുക്കൽ സംവിധാനം നൽകുന്നത് ഫസ്സി ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് നന്നായി യോജിക്കുന്നു കാരണം വിവരണത്തിൽ ധാരാളം ഫസ്സികളുണ്ട് ഉപയോക്തൃ ആവശ്യകതകളുടെ അവ്യക്തമായ സ്വഭാവം ശരിയായി മനസിലാക്കുന്നതിനായി ദാതാവിനോടുള്ള സംതൃപ്തിയുടെ അളവിലുള്ള ഒരു ഫ്രെയിംവർക് ഉണ്ട് ഉപയോക്തൃ ആവശ്യകതയുടെ ഫസ്സി സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ ഉപഭോക്താവിനെ വിളിക്കാൻ കഴിയുന്ന ഈ അളവിനെ അടിസ്ഥാനമാക്കി ദാതാവിനോടുള്ള സംതൃപ്തിയുടെ അളവ് എങ്ങനെ കണക്കാക്കാമെന്ന് നോക്കാം ദാതാവിന്റെ തിരഞ്ഞെടുപ്പ് ഫ്രെയിംവർക് ദാതാവിന്റെ വിശ്വാസ്യതയും കഴിവും കണക്കിലെടുക്കുന്നു ഇത് നോക്കുന്നതിനുള്ള മറ്റൊരു മാർഗ്ഗമുണ്ട് അത് ഒരു ഫോക്ക് ദാതാവിന്റെ തിരഞ്ഞെടുക്കൽ ഫ്രെയിംവർക് കണക്കിലെടുക്കുന്നു ദാതാവിന്റെ വിശ്വാസ്യതയും കഴിവും എല്ലാം നിങ്ങൾ ഈ വ്യത്യസ്ത സമീപനങ്ങൾ നോക്കുകയാണെങ്കിൽ കാര്യങ്ങൾക്കായി അനുയോജ്യമായ ഒരു ദാതാവിനെ കണ്ടെത്താൻ ഇത് ശ്രമിക്കുന്നു രണ്ടാമതായി ആ തരത്തിലുള്ള കാര്യങ്ങൾ തമ്മിൽ നിരവധി ഓവർലാപ്പുകൾ ചെയ്യാം നിങ്ങൾ ഉപഭോക്തൃ ക്യൂഒഎസ് പാരാമീറ്ററുകൾ സംസാരിക്കാൻ കഴിയും സുരക്ഷ വിശ്വാസ്യത കഴിവ് അപകടസാധ്യത എന്നിവപോലുള്ള മറ്റ് ഗുണനിലവാരമുള്ള സേവനങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ കഴിയും അങ്ങനെ പലതും ഏതെങ്കിലും ക്ലൌഡ് ദാതാവിന്റെ കാര്യത്തിൽ ദാതാവ് നൽകുന്ന വ്യത്യസ്ത തരം ക്യൂഒഎസ് മൂല്യങ്ങൾ അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ക്യൂഒഎസ് പാരാമീറ്ററുകൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കി ഒരു കൂട്ടം പാരാമീറ്ററുകൾ അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്ത ക്യൂഒഎസ് മൂല്യങ്ങൾ നമ്മൾക്ക് ഉണ്ട് 99 99 ശതമാനം അപ്ടൈം അല്ലെങ്കിൽ വളരെയധികം സുരക്ഷാ നിലയുണ്ടെന്ന് ദാതാവ് പറയുന്നു അല്ലെങ്കിൽ ഒരുപക്ഷേ ഇത്രയധികം ബാൻഡ്വിഡ്ത്ത് ലഭ്യമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് വ്യത്യസ്ത വിശ്വാസമുണ്ടാകും അത്തരം കാര്യങ്ങളിൽ ട്രസ്റ്റ് എല്ലാ ദാതാവിനേക്കാളും മൊത്തത്തിൽ ആകാം അല്ലെങ്കിൽ എനിക്ക് ലഭ്യമായ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നതുപോലുള്ള വ്യത്യസ്ത പാരാമീറ്ററുകളിൽ പോലും വിശ്വസിക്കാൻ കഴിയും അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഒരു പ്രത്യേക ദാതാവിൽ വിശ്വസിക്കുന്ന ശരിയായ കാര്യമാണെന്ന് ഞാൻ പറയുന്നു 0 29 സ്കെയിൽ 0 029 സ്കെയിലിൽ ഞാൻ വിശ്വസിക്കുന്നു 8 മൂല്യത്തിലും 0 8 ന്റെ വിശ്വാസ്യത മൂല്യത്തിലും ഞാൻ വിശ്വസിക്കുന്നു വ്യത്യസ്ത വിശ്വാസ്യത മൂല്യങ്ങളുണ്ട് അവ വ്യത്യസ്ത പാരാമീറ്ററുകളുമായി ബന്ധപ്പെട്ടതിനാൽ അവ സ്വതന്ത്രമായി സൂക്ഷിച്ചിരിക്കുന്നു അവിടെ ട്രസ്റ്റ് മൂല്യം സ്വതന്ത്രമായി സൂക്ഷിക്കാൻ കഴിയും കാരണം ഒരു പ്രത്യേക വാഗ്ദാനം ചെയ്യുന്ന വിശ്വാസ്യത മൂല്യങ്ങൾ പോലെ നോക്കുന്നതിന് വ്യത്യസ്ത തരം പാരാമീറ്ററുകൾ ഉണ്ടാകാം ഒന്നിനു ട്രസ്റ്റ് മൂല്യം 1 വാഗ്ദാനം 2 വിശ്വാസ മൂല്യം 2 എന്നിവ ആകാം ട്രസ്റ്റ് കണക്കുകൂട്ടലിനായി വ്യത്യസ്ത സംവിധാനങ്ങളുണ്ട് അവ ചരിത്രത്തിന്റെ ഒരു കാര്യത്തിനായി ട്രസ്റ്റ് കണക്കുകൂട്ടലിനായി പോകുന്നു തേർഡ് പാർട്ടി മോണിറ്ററിംഗ് യൂണിറ്റുകൾ ചരിത്രം നോക്കുകയും തുടർന്ന് കണക്കുകൂട്ടുകയും ചെയ്യുന്നു അത് ആ ട്രസ്റ്റുകളെ നിരീക്ഷിക്കുകയും അവിടെയും വിശ്വാസ്യത കണക്കാക്കാനുള്ള സംവിധാനങ്ങളാണ് ഇവ നമ്മൾ ഒരു സാധാരണ മാർക്കറ്റ്പ്ലെയ്സ് ആർക്കിടെക്ചർ അഭ്യർത്ഥിക്കുകയും അത് മറ്റ് ഇൻപുട്ടുകൾ എടുക്കുകയും കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്നു മറ്റ് ബ്ലോക്കുകൾ പോകുന്നു മാത്രമല്ല ഈ മൈഗ്രേഷൻ മൊഡ്യൂൾ അവിടെയുള്ള ദാതാക്കളാണ് അവരുടെ ലോഡിംഗ് ശേഷിയും കാര്യങ്ങളും എന്താണെന്നും അടിസ്ഥാനമാക്കി അത് ആവശ്യമുള്ള ദാതാക്കളെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഇത് ഒരു ദാതാവിന്റെ തിരഞ്ഞെടുപ്പിനായി പോകുന്നു ആവശ്യകത അഭ്യർത്ഥിക്കുന്ന ഒരു വശം ദാതാവിന്റെ വ്യത്യസ്ത ക്യൂഒഎസ് പാരാമീറ്ററുകളുടെ നിരീക്ഷണവും കാര്യങ്ങളുടെ തരവും തിരഞ്ഞെടുക്കൽ നിർണ്ണയിക്കുന്നു ഇത് അത്തരമൊരു സമീപനമായിരിക്കാം പക്ഷേ ഉപഭോക്തൃ ആവശ്യകത പോലെ ഇത് എങ്ങനെ എടുക്കും ഇത് വളരെ വ്യക്തമായി നിർവചിക്കപ്പെട്ടതാണോ അല്ലെങ്കിൽ ഫസ്സി ഉണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ ഫസ്സി എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നോ അല്ലെങ്കിൽ ഈ ഫസ്സി എങ്ങനെ കണക്കാക്കാമെന്നോ നോക്കാം ഒരു ഫസ്സി ഉണ്ടെങ്കിൽ ഇവിടെ വിന്യസിക്കാൻ കഴിയുന്ന ഇൻഫെറെൻസ് എഞ്ചിൻ ഉണ്ടാകാം നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ പ്രത്യേക കാര്യങ്ങൾ എന്റെ വിദ്യാർത്ഥികൾ അവരുടെ പ്രോജക്റ്റുകൾക്കായി ഒന്ന് Btech നും മറ്റൊന്ന് Mtech പ്രോജക്റ്റുകൾക്കുമായി പ്രവർത്തിക്കുന്നു ക്ലൌഡ് മാർക്കറ്റ് ഘട്ടത്തിനായി ഒരു ബുദ്ധിമാനായ ബ്രോക്കറിൽ ഒരു ഫസി ഇൻഫെറെൻസ് എഞ്ചിൻ ഉപയോഗിച്ച് ഒപ്പം ഫസ്സി സമീപനം ഉപയോഗിച്ച് ഈ ആർക്കിടെക്ചറിന്റെ ഒരു പ്രധാന ബ്ലോക്ക് ഡയഗ്രം ഉണ്ട് ദാതാവിന്റെ തിരഞ്ഞെടുപ്പ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഫസ്സി ഇൻഫെറെൻസ് എഞ്ചിൻ ഉപയോഗിച്ചാണ് ദാതാവീനെ തിരഞ്ഞെടുക്കുന്നത് അതിനാൽ മറ്റ് സമീപനങ്ങളുണ്ടാകാം എന്നാൽ ഈ സാഹചര്യത്തിൽ നമ്മൾ ഫസ്സി ഇൻഫെറെൻസ് എഞ്ചിനിൽ ചെയ്തു ഇൻപുട്ട് എന്നത് ഒരു ദാതാവ് വാഗ്ദാനം ചെയ്യുന്ന ക്യൂഒഎസ്ഉം അതിന്റെ വിശ്വാസ്യത അവകാശവുമാണ് ഇത് ഇൻപുട്ട് ദാതാവ് വാഗ്ദാനം ചെയ്യുന്നതിൽ നിന്ന് ഒരു ക്യൂഒഎസ്ആയി എടുക്കുന്നു ഒപ്പം അതിന്റെ ഔട്ട്പുട്ട് വിശ്വാസ്യതയും ഉപഭോക്തൃ അവകാശത്തിനായുള്ള ദാതാവിന്റെ അനുയോജ്യതയാണ് ദാതാവിന്റെ കഴിവ് എന്ന ഒരു വശമുണ്ട് കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന സേവനങ്ങളുടെ ഗുണനിലവാരവും അതിന്റെ വിശ്വാസ്യതയും ഈ ഉപഭോക്താക്കളുടേയോ ഉപയോക്താവിൻറെ ആവശ്യകതയുടേയോ വലുപ്പമാണെന്ന് പറയാൻ കഴിയും ഈ കേസിൽ ഈ ഫസി ഇൻഫെറെൻസ് എഞ്ചിൻ ഇവ രണ്ടും ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ പരിഗണിക്കുന്നു ഒടുവിൽ ഈ പ്രത്യേക ഉപഭോക്താവിന്റെ അടിസ്ഥാന ദാതാക്കളായിരിക്കേണ്ട ഒരു ഔട്ട്പുട്ട് നൽകുകയും ചെയ്യുന്നു ഒരു ക്ലൌഡ് മാർക്കറ്റിൽ ശരിയായ ദാതാവിനെ കണ്ടെത്തുന്നതിന്റെ ലക്ഷ്യം അതാണ് പരമാവധി അനുയോജ്യത നൽകുന്നതിന് ഉപഭോക്തൃ അഭ്യർത്ഥന അയയ്ക്കുന്നു ഉപയോക്തൃ ആവശ്യകത ഉപയോഗിച്ച് അംഗത്വ പ്രവർത്തനം നിർമ്മിക്കുന്നു ഉപഭോക്തൃ ഭാഗത്തുള്ള ദാതാക്കളുടെ പ്രവർത്തനത്തിനുള്ള അംഗത്വം ഉപയോക്തൃ ആവശ്യകതയെ അടിസ്ഥാനമാക്കി ഫ്ലൈയിൽ നിർമ്മിച്ച് സിസ്റ്റത്തിൽ ഉൾപ്പെടുത്താം ഉപഭോക്തൃ ഭാഗത്ത് ഒരു കൂട്ടം റൂൾ സെറ്റ് ഉപഭോക്തൃ ആവശ്യകതയ്ക്ക് അനുസൃതമായി ദാതാക്കളുടെ ഫിറ്റ്നസ് എന്നിവ അടിസ്ഥാനമാക്കി ഒരു റൂൾ മൂല്യനിർണ്ണയം ഉണ്ട് കാര്യത്തിന്റെ മറ്റ് വശങ്ങളും ഉണ്ട് ഈ മുഴുവൻ കാര്യങ്ങളും ദാതാവിനെ തിരഞ്ഞെടുക്കുന്നതിലേക്ക് നയിക്കുന്നു ഇത് അടിസ്ഥാനപരമായി സിസ്റ്റവുമായി യോജിക്കുകയും ദാതാവിന്റെ തിരഞ്ഞെടുപ്പ് നിലനിർത്തുകയും ചെയ്യുന്നു ഈ പരീക്ഷണത്തിനായി ദാതാവിന്റെ സെലക്ഷൻ ഇൻപുട്ട് മെമ്പർഷിപ് ഫങ്ങ്ഷൻ അംഗത്വ പ്രവർത്തനം വളരെ മോശം മീഡിയം നല്ലത് വളരെ മികച്ചത് വ്യത്യസ്ത തരം അവസ്ഥകൾ എന്നിവ പോലുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ ആയി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ അത് ചെയ്യുന്നത് ക്യൂഒഎസ് അടിസ്ഥാനമാക്കിയുള്ള ഇൻപുട്ട് വേരിയബിൾ എന്താണ് എന്നത് ഇൻപുട്ടിനൊപ്പം ആ മെമ്പർഷിപ് വീണ്ടും വ്യത്യസ്ത സ്കെയിലിൽ പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു ഔട്ട്പുട്ട് മെമ്പർഷിപ് ഫംഗ്ഷൻ നമ്മൾ നിർമ്മിക്കുന്നു സാധാരണയായി ഔട്ട്പുട്ട് മെമ്പർഷിപ് പ്രവർത്തനം മികച്ചതുമാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾക്കായി അനുയോജ്യമായ ദാതാവ് എന്തായിരിക്കണമെന്ന് നമ്മൾ കണക്കാക്കുന്നു മൊത്തത്തിലുള്ള പ്രക്രിയകൾ നിരീക്ഷിക്കുന്ന ഒരു മോണിറ്ററിംഗ് മൊഡ്യൂൾ ഉണ്ട് ലഭ്യമായ ഒരു വ്യത്യസ്ത വിഎം ബാൻഡ്വിഡ്ത്ത് ഒരു പ്രത്യേക വിഎം അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയം അനുഭവിച്ചറിയുന്ന ലഭ്യമായ ലഭ്യമായ വ്യത്യസ്ത അനുഭവ മൂല്യങ്ങൾ എടുക്കുന്നു തുടർന്ന് ഒരു പ്രത്യേക ദാതാവിന്റെ വ്യത്യസ്ത വിഎമ്മുകൾക്കുള്ള വ്യത്യസ്ത വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കുന്നു എന്നിട്ട് ആ എസ്എൽഎ സാറ്റിസ്ഫാക്ഷൻ സംബന്ധിച്ച ഒരു വിഎംഐയ്ക്കുള്ള എന്നതുപോലെ നിലവിലെ നിരീക്ഷണ കാലയളവിൽ ഒരു പ്രത്യേക സേവന ഉദാഹരണത്തിനായുള്ള ഇത്തരത്തിലുള്ള സേവന ദാതാവിന്റെ അല്ലെങ്കിൽ സേവന സംഭവങ്ങളുടെ പ്രകടനം സൃഷ്ടിക്കപ്പെടുന്നു അതിനർത്ഥം നമ്മൾ ഇത് ചെയ്യാൻ ശ്രമിക്കുന്നത്അവർ സേവനങ്ങൾ നിരീക്ഷിക്കാൻ ശ്രമിക്കുകയാണ് അവ വ്യത്യസ്ത ദാതാക്കളുടെ പ്രകടനങ്ങളാണെന്നും വ്യത്യസ്ത സേവന സംഭവങ്ങളെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ വലിപ്പത്തെ അടിസ്ഥാനമാക്കി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നത് ഒരു പ്രത്യേക ദാതാവിനെ തിരഞ്ഞെടുക്കുന്നതിന് പ്രധാനമാണ് നിങ്ങൾ നോക്കിയാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഉപഭോക്താവിന് ചില ആവശ്യകതകളുള്ള ഒരു വശമുണ്ട് ഈ ആവശ്യകത ചില ദാതാവിനോ അല്ലെങ്കിൽ ഒരു കൂട്ടം ദാതാവിനോ ഞാൻ അനുയോജ്യമാക്കേണ്ടതുണ്ട് പ്രകടനചരിത്രങ്ങൾക്കൊപ്പം പോലും ശരിയായ കാര്യം തുടർച്ചയായി നിരീക്ഷിക്കുന്ന ദാതാവിനായി ഇത് ദാതാവിനുണ്ടെന്ന് കാണുക വ്യത്യസ്തമായ പ്രകടനം എന്താണ് വാഗ്ദാന മൂല്യം എന്താണ് പരിചയസമ്പന്നമായ മൂല്യം എന്താണ് ക്ലൌഡ് ദാതാവ് നൽകുന്ന വാഗ്ദാനം നോക്കുന്നു കൂടാതെ അനുഭവവും ബാൻഡ്വിഡ്ത്ത് ലഭ്യത പോലുള്ള ഈ വാഗ്ദാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതും ഉപയോക്താവ് എത്രമാത്രം അനുഭവിക്കുന്നു അല്ലെങ്കിൽ വ്യത്യസ്ത സമയത്തുള്ള ഉപഭോക്താവ് ആണെന്നും കാണും ഒരു സമയം കണക്കാക്കുമ്പോൾ വ്യത്യസ്ത ദാതാവിനായി ഈ മോണിറ്ററിംഗ് യൂണിറ്റ് നൽകുന്നത് ഒരു പ്രത്യേക ദാതാവിന്റെ അല്ലെങ്കിൽ അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രത്യേക ദാതാവിന്റെ പ്രകടനം എങ്ങനെയെന്ന് വ്യത്യസ്ത സേവന ഉദാഹരണങ്ങൾക്ക് നൽകുന്നു ഉപഭോക്താവിന്റെ അനുയോജ്യത കണക്കിലെടുത്ത് നമ്മൾ സിസ്റ്റം സജ്ജമാക്കുന്നു അപ്പോൾ ഇത് സാധ്യമായ ദാതാവാണ് അല്ലെങ്കിൽ അതിന് റാങ്ക് ചെയ്യാൻ പോലും കഴിയും ആദ്യ സെക്കൻഡിലും മറ്റും ഇവിടെ ലഭ്യതയും ബാൻഡ്വിഡ്ത്തും പോലെ മറ്റ് വ്യത്യസ്ത ഘടകങ്ങളുണ്ടാകാം ചെലവ് പോലും ഒരു ഘടകമാണ് ഒരു സമയ നിർണ്ണായകമാണോ അല്ലെങ്കിൽ ഡാറ്റ നിർണ്ണായകമാണോ അല്ലെങ്കിൽ കൂടുതൽ കൃത്യതയാണോ എന്ന് ഒരു വലിയ പങ്ക് വഹിക്കുന്നു കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു അല്ലെങ്കിൽ സമയം കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു കൂടാതെ കാര്യങ്ങളുടെ തരം പ്രവർത്തിക്കുന്നു ഒരു പ്രത്യേക സിസ്റ്റം ദാതാവിൽ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഒരു ദാതാവിൽ നിന്ന് മറ്റൊന്നിലേക്ക് മൈഗ്രേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഫസി എന്ന് വിളിക്കപ്പെടുന്ന ഒരു കാര്യം ആവശ്യമാണ് മൈഗ്രേഷൻ തീരുമാനത്തിനായി മൈഗ്രേറ്റ് ചെയ്യുന്നതിന് മറ്റൊരു നിർണ്ണായക ബ്ലോക്ക് ആവശ്യമാണ് ഫസ്സി ഇന്ഫെറെൻസ് എഞ്ചിൻ ഉപയോഗിക്കുന്നു വ്യത്യസ്ത ഇൻപുട്ട് എഫ് ഒരു എഫ് രണ്ട് എഫ് മൂന്ന് എഫ് മൂന്ന് വ്യത്യസ്ത ദാതാക്കൾക്കായിരിക്കാം ഔട്ട്പുട്ട് ഒരു സേവന ഉദാഹരണത്തിന് ഒരു എസ്എൽഎ സംതൃപ്തിയുടെ അളവായിരിക്കും ഒരു എസ്എൽഎ സംതൃപ്തിയുടെ പരിധി പരിധിയേക്കാൾ കുറവാണെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യുക ഞാൻ എന്താണ് ചെയ്യുന്നത് പ്രത്യേക സേവന ഉദാഹരണം പ്രവർത്തിക്കുന്ന ഉപഭോക്താക്കളിൽ നിന്ന് ഞാൻ എന്റെ പ്രത്യേകതയാണെന്ന് ഞാൻ കരുതുന്നു സംതൃപ്തിയുടെ അളവ് പരിധിയേക്കാൾ കുറവാണെങ്കിൽ ഒരു പുതിയ ദാതാവിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ സേവന ഉദാഹരണത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ സംതൃപ്തിയുടെ അളവ് കണക്കാക്കുന്നു ഇവിടെയും ഇത് ഫസി ഇൻഫെറെൻസ് എഞ്ചിനിലൂടെയാണ് ചെയ്യുന്നത് വ്യത്യസ്ത തലങ്ങളിലുള്ള ഒരു ഔട്ട്പുട്ട് മെമ്പർഷിപ് പ്രവർത്തനത്തിന്റെ ഒരു സാധാരണ ഉദാഹരണമാണിത് അതിന്റെ അടിസ്ഥാനത്തിൽ എസ്എൽഎ സംതൃപ്തിയുടെ അളവ് ഒരു പ്രത്യേക സേവന ഉദാഹരണത്തിനായി മൈഗ്രേഷൻ ആവശ്യമാണോ അതോ മൈഗ്രേഷൻ നടപ്പിലാക്കേണ്ടതുണ്ടോ എന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്ന് നമ്മൾ കാണിക്കുന്നു ടാർഗെറ്റ് ദാതാവിന്റെ തിരഞ്ഞെടുക്കൽ ഈ ദാതാവിന്റെ തിരഞ്ഞെടുക്കൽ നടപടിക്രമത്തിന് സമാനമാണ് അങ്ങനെ പലതും തിരഞ്ഞെടുക്കാൻ ഈ കേസിൽ ഫസി ഇൻഫെറെൻസ് എഞ്ചിൻ ഉപയോഗിച്ച് വ്യക്തമാണ് നമ്മൾക്ക് ഇവിടെയുള്ളത്ഏത് തരത്തിലുള്ള സേവന ദാതാവിനും ഇത് ശരിയാണെങ്കിലും പ്രാഥമികമായി ഇത് കൂടുതൽ പ്രസക്തമായത് മാർക്കറ്റ് സ്ഥലമാണ് അവിടെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഒരു സേവനമായി നൽകപ്പെടുന്നു എന്നാൽ ഇത് ഏത് തരത്തിലുള്ള കാര്യത്തിനും ശരിയാണ് അതിനാൽ ഇവിടെ നമ്മൾ ചില കേസ് പഠനം നടത്തി ഇത് എത്രത്തോളം ഫലപ്രദമായിരുന്നു എന്നത് ഫസ്സി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കാം നമ്മൾ 10 ദാതാക്കളുമായി വ്യത്യസ്ത ഓഫറുകളുള്ള ഒരു സിമുലേഷൻ വിതരണത്തെ പിന്തുടരുന്നു അതിനാൽ ഒരു തരം ഡീഗ്രേഡഡ് QoS ഉണ്ടെങ്കിൽ ഗോസിയൻവിതരണവും പരമ്പരാഗത മിനിമം കോസ്റ്റ് ക്രിസ്പ് ബ്രോക്കറുമായി താരതമ്യപ്പെടുത്തിയും ചെയ്തു ക്രിസ്പ് ബ്രോക്കർ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഫസിനെസ്സ് ഉണ്ടാകില്ല അതായത് തീരുമാനമെടുക്കുന്നതിന് കുറഞ്ഞ ചിലവോടെ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു ഇവിടെ കാണിച്ചിരിക്കുന്നത് ആവറേജ് അവൈലബിലിറ്റി സമീപനത്തേക്കാൾ മികച്ചതാണ് ഇത് വീണ്ടും ശരാശരി ബാൻഡ്വിഡ്ത്തിനായുള്ളതാണ് ഇവിടെ നീലയാണ് ഉപയോക്തൃ ആവശ്യം ചുവപ്പ് ഫസ്സിയും പച്ചയാണ് ക്രിസ്പ് ബ്രോക്കറും ഈ ക്രിസ്പ് ബ്രോക്കിംഗ് തരത്തേക്കാൾ മികച്ചത് ഇവിടെയും നമുക്ക് കാണാം അതുപോലെ തന്നെ മണിക്കൂറിൽ ഒരു വിഎമ്മിന് ശരാശരി ചിലവ് നമ്മൾ അതേ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്കെയിലിൽ ഫസ്സി മികച്ച ഫലം നൽകുന്നു സമാനമായി ഇത് പ്രധാനമായും SaaS നുള്ളതാണെങ്കിലും ദാതാവിന്റെ തരമാണ് പക്ഷേ നമ്മൾ SaaS ൽ ചില പരീക്ഷണങ്ങൾ നടത്തി അല്ലെങ്കിൽ SaaS വിപണിയിൽ ചില സിമുലേഷനുകൾ നടത്തി ഇവിടെയും 10 സേവന ദാതാക്കളെ 500 സേവന അഭ്യർത്ഥനകളുമായി 365 ദിവസത്തിൽ വീണ്ടും അനുകരിച്ചു കുറച്ച് ദാതാക്കളുടെ പ്രകടന നിലവാരത്തകർച്ച QaS പാരാമീറ്റർ ഒരു ഗോസിയൻ പിന്തുടരുന്നു QoS ഗോസിയൻ പിന്തുടരുകയും കൺവെൻഷനൽ ക്രിസ്പ് കാര്യവുമായി കംപ്രഷൻ ചെയ്യുകയും ചെയ്യുന്നു ഇവിടെയും ഡോട്ട് ഇട്ട വരിയാണ് ഉപയോക്തൃ ആവശ്യം ചുവപ്പ് ഫസ്സി ക്രിസ്പ് പച്ച വീണ്ടും ക്രമീകരിക്കുക ഫസ്സി മികച്ച രീതിയിൽ പിന്തുടരുന്നുവെന്ന് തോന്നുന്നു അത് എല്ലായ്പ്പോഴും അങ്ങനെയായിരിക്കില്ല പക്ഷേ ഇത് മികച്ചതായിരിക്കാം ഉപയോക്തൃ ആവശ്യകതയെ ഫസ്സി ഇന്ഫെറെൻസ് എഞ്ചിൻ മികച്ച രീതിയിൽ മാപ്പുചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ ഇത് ശരാശരി പ്രതികരണ സമയത്തിന്റെ കാര്യത്തിലാണ് ഈ കേസിലെ 30 ദിവസത്തെ പ്രത്യേക കാലയളവ് കൂടാതെ മൊത്തത്തിലുള്ള പ്രകടനം ഫസി ക്രിസ്പ് ഉള്ളതുപോലെ എങ്ങനെയാണ് എന്ന് നോക്കാം ഉപയോക്തൃ ആവശ്യകതയുമായി ബന്ധപ്പെട്ട് സമാനമായി ഇത് ഒരു പ്രത്യേക കാര്യങ്ങളുടെ ശരാശരി ചിലവാണ് അടിസ്ഥാനപരമായി ഇത്തരത്തിലുള്ള ഫസ്സി ഇന്ഫെറെൻസ് എഞ്ചിൻ നമ്മൾ നടപ്പിലാക്കുന്നുവെന്ന് നമ്മൾ കാണുന്നു ഈ ഉപയോക്തൃ ആവശ്യകതയെ മാപ്പ് ചെയ്യുന്നതിനായി ഉപയോക്താക്കളുടെ ആവശ്യകതയെ ദാതാക്കളുടെ ഓഫറുകളുമായി ആശയക്കുഴപ്പത്തിലാക്കാനും മികച്ച ദാതാവിനെ ഉപയോക്താവിനൊപ്പം നൽകാൻ ശ്രമിക്കുക പ്രത്യേക ഉപയോക്തൃ ആവശ്യകത അല്ലെങ്കിൽ ഒരു പ്രത്യേക സേവന സംഭവങ്ങൾക്കായി ഒരു പ്രത്യേക ഉപയോക്താവിനായി സജ്ജമാക്കുക ഭാവിയിൽ നിരവധി സാധ്യതകളുണ്ട് പ്രത്യേകിച്ചും ഈ ഗവേഷണത്തിൽ ഉപയോക്താവിന് ക്യൂഒഎസ് ആവശ്യകതയിൽ ഫ്ലെക്സിബിലിറ്റി ആക്കാൻ നമുക്ക് കഴിയുമോ ആവശ്യകത ഉൽപാദന ജോലിഭാരത്തെക്കുറിച്ചുള്ള നിലവിലുള്ള സമീപനങ്ങളെ വീണ്ടും താരതമ്യം ചെയ്യുക ഒരു ലൈഫ് വർക്ക് ലോഡിൽ നമ്മൾക്ക് നിരവധി ക്ലാസ് ഉപഭോക്താക്കളെ താരതമ്യം ചെയ്യാൻ കഴിയുമോ ഇപ്പോൾ അവിടെ ഉപഭോക്താക്കളെ വിവിധ തരം ഉപഭോക്താക്കളായി തരംതിരിക്കാമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് വ്യക്തിഗത ഉപഭോക്താവിനെ എടുക്കുന്നതിനുപകരം ഇത് ഉപയോക്താവാണെന്ന് ഞാൻ പറയുന്നു ഉപയോക്താവ് ക്ലാസ് ഏരിയ ഉപഭോക്താവാണ് ഇതെല്ലാം കൂടാതെ ഏത് തരത്തിലുള്ള സേവനങ്ങളാണ് തിരയുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും അത്തരം കാര്യങ്ങളിൽ ഏത് തരത്തിലുള്ള സേവനങ്ങൾക്കും അല്ലെങ്കിൽ XaaS തരത്തിലുള്ള സേവനങ്ങൾക്കുമായി കാര്യങ്ങൾ വിപുലീകരിക്കുന്നത് കാര്യങ്ങളുടെ ഒരു പ്രധാന ഘടകമായിരിക്കാം ഒരു ക്ലൌഡ് മാർക്കറ്റിൽ ഉചിതമായ പൊരുത്തം കണ്ടെത്തുന്നത് ഒരിക്കലും കാലതാമസം വരുത്തുന്നില്ല യഥാർത്ഥ ജീവിത കാഴ്ചപ്പാടിൽ നിന്നോ വാണിജ്യപരമായ കാഴ്ചപ്പാടിൽ നിന്നോ അനുയോജ്യമായ കാഴ്ചപ്പാടുകൾ എങ്ങനെ അളക്കാം അല്ലെങ്കിൽ എങ്ങനെ കണ്ടെത്താമെന്നതിനെക്കുറിച്ചും ഗവേഷണ കാഴ്ചപ്പാടിൽ നിന്നും വളരെയധികം താൽപ്പര്യം നേടുന്നു അനുയോജ്യമായത് തിരഞ്ഞെടുത്തത് ഏറ്റവും മികച്ച കാര്യമാണെന്ന് ഔദ്യോഗികമായി പറയാൻ എന്നാൽ ഇത് ഒരുതരം ഗ്യാരണ്ടീഡ് തരത്തിലുള്ള സേവനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സമീപമാണ് ഭാവിയിലെ പഠന ഗവേഷണങ്ങളിൽ താൽപ്പര്യമുള്ള വിഷയമാണിത് ഇത് ഒരു പ്രധാന വശമാണ് കാരണം അതിൽ ധാരാളം വശങ്ങൾ ഉൾപ്പെടുന്നു വിശ്വാസയോഗ്യതയും എസ്എൽഎ ഗ്യാരന്റികളും എസ്എൽഎ മൂല്യങ്ങളും എങ്ങനെ കണക്കാക്കാം അല്ലെങ്കിൽ കാലക്രമേണ SLAS എങ്ങനെ സംതൃപ്തരാണെന്നും അത് അടിസ്ഥാനമാക്കി ഇന്നത്തെ സമയത്ത് എങ്ങനെ കാര്യങ്ങൾ ഉണ്ടെന്നും എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാമെന്നും അവയെ എങ്ങനെ നിരീക്ഷിക്കാം എന്നും നോക്കാം ഇന്നത്തെ ക്ലൌഡ് ഇൻഫ്രാസ്ട്രക്ചറിൽ അല്ലെങ്കിൽ ക്ലൌഡ് കമ്പ്യൂട്ടിംഗിനെ കൂടുതൽ ജനപ്രിയമാക്കുന്നതിൽ ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു ഈ ചർച്ചയിലൂടെ നമ്മൾ ഇന്ന് നിർത്തുന്നു നമ്മളുടെ ഭാവി പ്രഭാഷണങ്ങളിൽ വ്യത്യസ്ത വീക്ഷണകോണിൽ നിന്ന് ക്ലൌഡ് കമ്പ്യൂട്ടിംഗിന്റെ പുതിയ ചില വശങ്ങളുമായി നമ്മൾ തുടരുo